ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഒരു പ്രശ്നം മോഡലിംഗ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു ലീനിയർ പ്രോഗ്രാം ഒരു ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണെന്ന് ഓർമ്മിക്കുക അവിടെ നിങ്ങൾക്ക് കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്ന അളവുകൾ വിവരിക്കുന്ന ചില വേരിയബിളുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വേരിയബിളുകളിൽ ലീനിയർ പരിമിതികളുണ്ട് അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാനോ വലുതാക്കാനോ കുറയ്ക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്താണെന്ന് വിവരിക്കുന്ന ഒരു ലീനിയർ ഫംഗ്ഷനെ ഒബ്ജക്ടീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു ഒരു ലീനിയർ പ്രോഗ്രാം പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം അതിനെ ജ്യാമിതീയമായി ചിന്തിക്കുകയും സിംപ്ലക്സ് അൽഗോരിതം ഉപയോഗിക്കുകയും ചെയ്യുന്നു കൂടാതെ ഒരു ലീനിയർ പ്രോഗ്രാമിന്റെ ഒപ്റ്റിമൽ മൂല്യം എല്ലായ്പ്പോഴും ഫ്യൂസിബിൾ മേഖലയുടെ വെർടെക്സിലാണെന്ന വസ്തുതയെ സിംപ്ലക്സ് അൽഗോരിതം ഉപയോഗപ്പെടുത്തുന്നു അതിനാൽ ഇത് ചില വെർടെക്സിൽ നിന്ന് ആരംഭിക്കുകയും അത് ഒരു വെർടെക്സിൽ നിന്ന് ഒരു അയൽക്കാരനിലേക്ക് പോകുകയും ചെയ്യുന്നു അയൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ മൂല്യമുള്ള ഒരു വെർടെക്സ് കണ്ടെത്തുന്നതുവരെ വെർടെക്സ് യഥാർത്ഥത്തിൽ പരിഹാരത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് അവകാശവാദം ഡ്യുവൽ നിർമ്മിക്കുന്നതിലൂടെ ഇത് ഏറ്റവും അനുയോജ്യമായ മൂല്യമാണെന്ന് നമുക്ക് ന്യായീകരിക്കാമെന്നും നമ്മൾ പറഞ്ഞു ഇത് കോമ്പിനേഷൻ കുറയ്ക്കുന്നതിന് നിയന്ത്രണങ്ങളെ എങ്ങനെ സംയോജിപ്പിക്കാം ഒറിജിനലും ഡ്യുവലും പരിഹരിക്കുന്ന പരിഹാരം യഥാർത്ഥത്തിൽ ഒരു ഒപ്റ്റിമൽ മൂല്യമാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കാർപെറ്റ് നിർമ്മാണ കമ്പനിയാണ് കൈകൊണ്ട് നെയ്ത കാര്പെറ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി നമ്മുടെ പക്കലുണ്ട് നമ്മൾ നിലവിൽ 30 ജോലിക്കാരെ നിയമിക്കുന്നു ഓരോ ജോലിക്കാരനും പ്രതിമാസം 20 കാര്പെറ്റുകൾ ഉത്പാദിപ്പിക്കുന്നു അതിനു 20000 രൂപ ശമ്പളം നൽകുകയും ചെയ്യുന്നു ഒരു കാര്പെറ്റിനു ചിലവ് നോക്കിയാൽ ഓരോ കാര്പെറ്റും നിർമ്മിക്കാൻ നമ്മൾ 1000 രൂപ നൽകുന്നു ഇപ്പോൾ നമ്മളുടെ പ്രതിമാസ ആവശ്യം കാലാനുസൃതമാണെന്ന് മാറുന്നു അതിനാൽ ചില ടാസ്ക് ഡാറ്റകൾ നോക്കിയ ശേഷം വർഷത്തിലെ ഓരോ മാസത്തിലും വിൽക്കാൻ പ്രതീക്ഷിക്കുന്ന കാർപെറ്റിന്റെ അളവ് കണക്കാക്കുന്നു നമുക്ക് 440 മുതൽ 920 വരെ ഡിമാൻഡ് ഉണ്ട് നിങ്ങൾക്ക് 30 ജോലിക്കാരും 20 കാര്പെറ്റും വീതമുണ്ടെന്നോർക്കുക ഒരു നിശ്ചിത മാസത്തിൽ എനിക്ക് 600 കാര്പെറ്റുകൾ നിർമ്മിക്കാൻ കഴിയും നിലവിലെ ഓഹരിയിൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ചില സമയങ്ങളിൽ ഡിമാൻഡ് 440 ആയി കുറവാണ് ഞാൻ 600 കാര്പെറ്റുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 30 ജീവനക്കാരുണ്ടെങ്കിൽ ഓരോരുത്തരും മാസം 20 കാര്പെറ്റുകൾ ഉത്പാദിപ്പിക്കാൻ പോകുന്നുവെങ്കിൽ ഞാൻ അത് തിരികെ നേടാൻ പോകുന്നു കാര്പെറ്റുകൾ അനുയോജ്യമല്ലാത്ത രീതിയിൽ നിർമ്മിക്കാൻ ഞാൻ ഒരു ശതമാനം അടയ്ക്കുന്നു അതിനാൽ ഓരോ ജോലിക്കാരനും പ്രതിമാസം 20 കാര്പെറ്റുകൾ ഉത്പാദിപ്പിക്കും ഞാൻ എല്ലായ്പ്പോഴും 600 കാര്പെറ്റുകൾ നിർമ്മിക്കും പക്ഷേ എനിക്ക് 160 ജോഡി ഉണ്ടാകും അത് എനിക്ക് വിൽക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് 320 ആവശ്യപ്പെടുന്ന ചില മാസങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് വിൽക്കാൻ മതിയായ കാര്പെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യമുണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ആവശ്യം എനിക്കറിയാം ഇവ ജനുവരിയിൽ ഡി 1 ഫെബ്രുവരിയിൽ ഡി 2 ഡിസംബറിൽ ഡി 12 എന്നിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിനാൽ അറിയപ്പെടുന്ന നെറ്റ് മാർക്കുകളായ ഈ 12 അളവുകൾ എന്റെ പക്കലുണ്ട് ഇവയാണ് എനിക്ക് എത്ര കാര്പെറ്റുകൾ വിൽക്കാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഓരോ മാർക്കുകളും ഇപ്പോൾ ഈ കോപ്പിംഗ് ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ കാരണം എനിക്ക് ഏറ്റവും കുറഞ്ഞ തുക നഷ്ടപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈ വ്യത്യസ്തമായ ആവശ്യകതയെ നേരിടാൻ ഞാൻ ഈ തന്ത്രവുമായി വരേണ്ടതുണ്ട് അതിനാൽ ഒരു സാധ്യത എനിക്ക് അധിക ഡിമാൻഡ് ഉള്ളപ്പോഴെല്ലാം ഞാൻ ഓവർടൈം എടുക്കുന്നു അതിനാൽ ഞാൻ കാലക്രമേണ പണം നൽകിയാൽ തൊഴിലാളികളെ കൂടുതൽ മണിക്കൂർ ജോലിചെയ്യാനും കൂടുതൽ കാര്പെറ്റുകൾ ഉണ്ടാക്കാനും കഴിയും പക്ഷേ ഇതിന് 2 ചിലവുണ്ട് ഓവർടൈമിനായി മണിക്കൂറിൽ ജോലി ചെയ്യുന്ന വേതനം സാധാരണ എഡ്ജിനേക്കാൾ കൂടുതലാണ് ഇത് 80 ശതമാനം അധികമാണെന്ന് കരുതുക നിങ്ങൾ ആദ്യം ഓർക്കുന്നുവെങ്കിൽ നമ്മുടെ തൊഴിൽ ചെലവായി ഒരു കാര്പെറ്റിനു 1000 രൂപയാണ് നൽകിയത് ഞാൻ ഓവർടൈമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വില ഒരു കാര്പെറ്റിനു 1800 രൂപയായിരിക്കും കാരണം ഇത് ഒരേ സമയം എടുക്കും വ്യക്തിക്ക് 80 ശതമാനം കൂടുതൽ പ്രതിഫലം നൽകും അതിനാൽ 1800 ൽ 80 ശതമാനം ഒരു കാര്പെറ്റിനു 1800 ചിലവാകും ഓവർടൈം നിരക്ക് മറ്റൊന്ന് നിങ്ങൾക്ക് തീർച്ചയായും കഴിയില്ല ആരെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഒരു തൊഴിലാളിയ്ക്ക് 30 ശതമാനത്തിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയില്ല 30 ശതമാനത്തിൽ കൂടുതൽ ഓവർടൈം ചെലവഴിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു പരിധിയുണ്ട് അതിനാൽ അവർ സാധാരണഗതിയിൽ പ്രതിമാസം 20 ആക്കുകയാണെങ്കിൽ പരമാവധി അവർക്ക് പ്ലസ് 6 ലേക്ക് പോകാം ഒരു തൊഴിലാളിയ്ക്ക് ഇപ്പോൾ പ്രതിമാസം ഓവർടൈം 26 ഉൾപ്പെടെ പരമാവധി ഉണ്ടാക്കാൻ കഴിയും എനിക്കുള്ള മറ്റൊരു ഓപ്ഷൻ ജീവനക്കാരെ ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക എനിക്ക് പുതിയ തൊഴിലാളികളെ ചേർക്കാൻ താൽപ്പര്യമുണ്ടാകാം എനിക്ക് ഒരു മാസം ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 600 ൽ താഴെയുള്ള എന്റെ ഡിമാൻഡ് പ്രോബുകൾ ഉണ്ടെങ്കിൽ ചില ജീവനക്കാരെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇവയും ചിലവിൽ വരുന്നു എനിക്ക് കുറച്ച് പേപ്പർ ജോലികൾ ചെയ്യേണ്ടതുണ്ട് കൂടാതെ എനിക്ക് കുറച്ച് നഷ്ടപരിഹാരവും നൽകേണ്ടതുണ്ട് അതിനാൽ ഒരു നിശ്ചിത ചിലവ് 3200 ഉണ്ടെന്ന് കരുതുക ഒരു തൊഴിലാളിയെ നിയമിക്കുന്നതിനുള്ള കോസ്റ്റ് അസോസിയേറ്റ് 3200 ഉം ഒരു തൊഴിലാളിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള കോസ്റ്റ് അസോസിയേറ്റാണ് 4000 രൂപയും അവസാനമായി ഞാൻ നിലവിലുണ്ടായിരിക്കുമ്പോൾ കാര്പെറ്റുകൾ സംഭരിക്കാനും എനിക്ക് ആവശ്യം വരുമ്പോൾ പിന്നീട് വിൽക്കാനും കഴിയും എന്നാൽ സംഭരണത്തിനും ചിലവ് വരും അതിനാൽ ഒരു കാർപെറ്റ് സംഭരിക്കുന്നതിന് പ്രതിമാസം 80 രൂപ ചിലവാകും കാരണം ഈർപ്പത്തിൽ നിന്നുള്ള കേടുപാടുകൾ ഒഴിവാക്കാൻ ഞാൻ ശ്രദ്ധാപൂർവ്വം സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ എനിക്ക് ഓവർടൈം അടയ്ക്കാൻ കഴിയുന്ന വിവിധ ഓപ്ഷനുകൾ ഇവയാണ് എന്നാൽ ഒരു പരിധി വരെ ഓവർടൈം തിരിച്ചടച്ച ഒരു വ്യക്തി നിർമ്മിച്ച കാര്പെറ്റിനു ഇത് കൂടുതൽ ചിലവാകും എനിക്ക് ഒന്നുകിൽ എന്റെ തൊഴിൽ സേനയിൽ നിന്ന് ചേർക്കാനോ കുറയ്ക്കാനോ കഴിയും എന്നാൽ ഇത് ഓരോ തവണയും ചെയ്യുമ്പോഴുള്ള ചെലവും കൂടിയാണ് അവസാനമായി എന്റെ ഉൽപാദനം നിലനിർത്താനും ഒരു മാസം മുതൽ അടുത്ത മാസം വരെ കൈമാറാനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് മിച്ച സംഭരണ ചിലവ് ഉണ്ട് ഇതിൽ നിന്ന് ഒരു ലീനിയർ പ്രോഗ്രാം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ചില വേരിയബിളുകൾ ആവശ്യമാണ് അതിനാൽ ജനുവരി ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ ഈ 12 മാസങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു ഒരു മാസത്തെ ഈ പരിധിക്കുള്ളിൽ എല്ലാം സംഭവിക്കുന്നതായി കരുതുന്നത് സ്വാഭാവികമാണ് ഞാൻ 1 മുതൽ 12 വരെയുള്ള മാസങ്ങളിൽ നമുക്ക് വൈഫൈ വർക്കർമാർ ഉണ്ടെന്ന് കരുതുക തുടക്കത്തിൽ നമുക്ക് 30 തൊഴിലാളികളുണ്ട് ഈ 30 മുതൽ തൊഴിലാളികളെ ശൂന്യമാക്കാൻ നമ്മൾ ചിലരെ നിയമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യും തുടർന്ന് ഫെബ്രുവരി ലഭിക്കാൻ ചിലരെ വാടകയ്ക്കെടുക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യുക ഓരോ മാസവും നമുക്ക് കൂടുതലോ കുറവോ തൊഴിലാളികളുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ 30 ൽ നിന്ന് ആരംഭിക്കുന്നു ഇപ്പോൾ ഈ 30 തൊഴിലാളികൾ കുറച്ച് കാര്പെറ്റുകൾ ഉണ്ടാക്കും ഒരു മാസത്തിൽ നിർമ്മിച്ച മൊത്തം കാര്പെറ്റുകളുടെ എണ്ണം X i O i എന്നിവയാണെന്ന് കണക്കാക്കാം ഇത് മൊത്തം കണക്കനുസരിച്ച് X i ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ O i എന്നത് ഓവർടൈമിൽ നിർമ്മിക്കുന്ന കാര്പെറ്റുകളുടെ എണ്ണമാണ് കാരണം ഇവയ്ക്ക് ഒരു അധിക ചിലവ് ഉണ്ട് ഇത് നമ്മൾ ഇതിനകം തൊഴിലാളിയ്ക്ക് നൽകുന്ന മറ്റ് ശമ്പളത്തിലും അവസാനിക്കുന്നു അവസാനമായി നമുക്ക് ഈ ജോലിക്കെടുക്കലും പിരിച്ച്ചുവിടൽ ചിലവും ഉണ്ടെന്ന് പറഞ്ഞു അതിനാൽ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ ജോലിക്കാരായ തൊഴിലാളികളുടെ എണ്ണവും ഒരു മാസത്തിന്റെ തുടക്കത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട തൊഴിലാളികളുടെ എണ്ണവും ആയിരിക്കട്ടെ മാസാവസാനത്തോടെ എന്റെ കൈവശമുള്ള മിച്ച കാര്പെറ്റുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ S i അനുവദിക്കുക എനിക്ക് തുടക്കത്തിൽ ഒരു ശൂന്യമായ വേരിയബിളുകളുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ 0 0 ആയി എന്നാൽ ജനുവരി 1 ന് s 1 ഉപയോഗിച്ച് എന്റെ കഥയിൽ എത്ര കാര്പെറ്റുകൾ ഉണ്ട് s 2 ഫെബ്രുവരി അവസാനം എന്റെ കഥയിൽ എത്ര കാര്പെറ്റുകൾ ഉണ്ട് അങ്ങെനെ പോകുന്നു 1 2 3 4 5 6 എന്നിങ്ങനെ അളവുകൾ ഉണ്ട് ഈ അളവുകൾ ഓരോന്നും 12 മാസത്തേക്ക് ഉണ്ട് അതിനാൽ 72 വേരിയബിളുകളായി എനിക്ക് w0 അല്ലെങ്കിൽ s0 നായി ഈ ഡിഫോൾട്ട് ഇനിഷ്യേൽ വേരിയബിളുകൾ ഉണ്ട് അതിനാൽ 74 വേരിയബിളുകൾ ഇത് ഞാൻ കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങളാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ലീനിയർ പ്രോഗ്രാമിൽ ഒരു വലിയ സംഖ്യയല്ല സിംപ്ലക്സ് ഉൾപ്പെടെയുള്ള ഒരു പുതിയ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് കാര്യക്ഷമമായി പരിഹരിക്കാൻ കഴിയും ഇപ്പോൾ നമുക്ക് പരിമിതികളുടെ കാര്യം ചെയ്യാം സാധാരണ സംസാരിക്കുന്നതിന്റെ ആദ്യത്തെ തടസ്സം അതായത് നമ്മൾ സംസാരിക്കുന്ന ഓരോ അളവിലും 0 ന് തുല്യമായതിനേക്കാൾ വലുതാണ് രണ്ടാമത്തെ പരിമിതികൾ സംസാരിക്കുന്നു കാര്പെറ്റുകളുടെ എണ്ണം എങ്ങനെ പതിവ് ഉൽപാദനവും ഓവർടൈമും വിഘടിക്കുന്നു അതിനാൽ ഞാൻ ഒരു മാസത്തിൽ കാര്പെറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ തൊഴിലാളിയും എന്റെ സ്ഥാപനത്തിലെ W i തൊഴിലാളികളുടെ എണ്ണം ഓർമിക്കുന്നു ഞാൻ 20 ആക്കും അതിനാൽ 20 തവണ W i മാസത്തിലെ തൊഴിലാളികൾ ഞാൻ സാധാരണ സമയത്തിനുള്ളിൽ ഉൽപാദിപ്പിക്കുന്നു കൂടാതെ O i എന്നത് നിർമ്മിച്ച കാര്പെറ്റുകളുടെ എണ്ണം മാത്രമാണ് O i എന്നത് ഓവർടൈം മണിക്കൂറുകളുടെ എണ്ണമല്ല അതിനാൽ O i എന്നത് കാര്പെറ്റുകളുടെ എണ്ണമാണ് ഓരോ മാസവും ഞാൻ 20 മടങ്ങ് തൊഴിലാളികളെയും പ്ലസ് O i യെയും ഉണ്ടാക്കുന്നു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം W i മൈനസ് 1 തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരംഭിക്കുകയും കുറച്ച് പേരെ നിയമിക്കുകയും കുറച്ച് പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്താൽ ഇപ്പോൾ എന്റെ ആകെ എണ്ണം പഴയ നമ്പറാണ് ഒപ്പം വാടകയ്ക്കെടുത്തവരുടെ എണ്ണവും ഓരോ W i യും മുമ്പത്തെ W i യുമായി എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ പരിമിതിയാണിത് അതുപോലെ ഈ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു ഈ മാസം ഞാൻ എത്രമാത്രം ഉണ്ടാക്കി എത്ര വിറ്റു എന്നതുമായി സ്റ്റാക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ d 1 മുതൽ d 12 വരെയാണ് ഡിമാൻഡ് എന്ന് ഓർമ്മിക്കുക ഇത് നിശ്ചിത അളവാണ് ഒന്നുകിൽ ഇവ അറിയപ്പെടുന്ന മൂല്യങ്ങളല്ല ഈ മാസത്തിൽ ഞാൻ di വിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ X i നിർമ്മിക്കുന്നു X i മൈനസ് d i ആണ് ഞാൻ ഈ മാസം ഉത്പാദിപ്പിക്കുന്ന എക്സിറ്റുകൾ കമ്മി കാരണം മിച്ച Si മൈനസ് 1 ഉപയോഗിച്ചാണ് ഞാൻ ആരംഭിച്ചത് ഈ മാസത്തെ മിച്ചം നിരാകരിക്കുന്നുവെന്ന് ഞാൻ ചേർത്താൽ മാസാവസാനത്തോടെ എനിക്ക് ആകെ മിച്ചം ലഭിക്കും ഓർക്കുക എനിക്ക് നെഗറ്റീവ് കാര്പെറ്റുകൾ ഉണ്ടാകരുത് Si ഇവയെല്ലാം എല്ലായ്പ്പോഴും 0 ന് തുല്യമായിരിക്കണം അവസാനമായി ഒരു തൊഴിലാളിയ്ക്ക് മുമ്പ് സാധാരണ 20 മാസത്തിൽ 20 കാര്പെറ്റുകൾ ഉത്പാദിപ്പിക്കാൻ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ചേർത്താൽ നിങ്ങൾക്ക് 30 ശതമാനം ഓവർടൈം ചെയ്യാൻ കഴിയും ഇത് 20 പ്ലസ് 6 ആണ് അതിനാൽ ഓവർടൈമിൽ നിർമ്മിച്ച കാര്പെട്റ്റുകളുടെ എണ്ണം ഓരോ തൊഴിലാളിക്കും 6 ആയിരിക്കാം O i 6 ഇരട്ടി W i യേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കണം അതിനാൽ ഇവയെല്ലാം ഇപ്പോൾ പരിമിതികളാണ് ഇപ്പോൾ ഈ പരിമിതികൾ നൽകുന്നത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊത്തം ചെലവ് കുറയ്ക്കുക എന്നതാണ് അതിനാൽ ആദ്യം ഇത് സാധാരണ ശമ്പളച്ചെലവാണ് സാധാരണ ശമ്പളച്ചെലവ് ഒരു തൊഴിലാളിയ്ക്ക് 20000 ആണ് നമുക്ക് മാസം 1 ഡബ്ല്യു 2 മാസം 2 ഡബ്ല്യു 2 മാസം 12 എന്നിവയിൽ ഡബ്ല്യു 1 തൊഴിലാളികളുണ്ട് അതിനാൽ മൊത്തം തൊഴിലാളികളുടെ എണ്ണം നമ്മൾ ചേർക്കുന്നു ഓരോ കുഴപ്പവും 20000 രൂപയാണ് ഇത് വർഷത്തിന് മുമ്പുള്ള ആകെ ശമ്പളമാണ് തുടർന്ന് ഓരോ മാസവും എത്ര പേരെ നമ്മൾ നിയമിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഓരോ വാടകയ്ക്കും നമ്മൾ 3000 അടയ്ക്കുന്നു അതിനാൽ ഇത് നമ്മുടെ ജോലിക്കാരാണ് അതുപോലെ നമ്മൾ ബിസിനസ്സ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ആദ്യം 4000 നൽകണം ഇത് ഫയറിംഗ് പിക്ക് ആണ് തുടർന്ന് ഓരോ കാര്പെറ്റിന്റെ വിലയ്ക്കും 80 രൂപ നിരക്കിൽ ഓരോ മാസവും സംഭരിച്ചിരിക്കുന്ന തെറ്റായ കാര്പെറ്റുകളുടെ എണ്ണം മൊത്തം സംഭരണം 80 കൊണ്ട് ഗുണിക്കണം ഒടുവിൽ ഞാൻ ഓവർടൈം നൽകുകയും നമ്മുടെ നമ്പർ ശമ്പളം നൽകുകയും ചെയ്യുo അതിനാൽ ഓവർടൈമിൽ നിർമ്മിച്ച ഓരോ കാര്പെട്റ്റിനും ഇതിനകം തന്നെ ശമ്പളത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള 1000 രൂപയെന്ന് കരുതുക 1800 രൂപയെന്ന് ഓർക്കുക അതിനാൽ ഇത് എന്റെ ഓവർടൈം ചെലവാണ് ഉൽപാദനത്തെക്കുറിച്ചുള്ള വളരെ സങ്കീർണ്ണമായ ഈ ചോദ്യം നമുക്ക് ആവശ്യവും ജോലിക്കാരും പ്രചോദനവും ഉൽപാദനക്ഷമതയുമൊക്കെയായി എടുത്ത് 72 പ്ലസ് 274 വേരിയബിളുകളും സങ്കീർണ്ണ കോസ്റ്റ് ഫംഗ്ഷനും ഉപയോഗിച്ച് സജ്ജമാക്കി സിംപ്ലക്സിലേക്ക് കൊടുക്കുകയും ഉത്തരം നേടുകയും ചെയ്യുമെന്ന് ഇത് പറയുന്നു നമ്മൾ സിംപ്ലക്സ് ചെയ്യുന്നു നമ്മൾ പരിഹാരം കണ്ടെത്തുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്തു അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ലാത്ത ഒരു ഉത്തരം നൽകാം ഉദാഹരണത്തിന് h 3 10 6 ന് തുല്യമാണെന്ന് ഒരു ഉത്തരം പറയും ഇതാണ് നമ്മൾ ഒരു മാസത്തിൽ ഒരു ചെറിയ ആളുകളെ നിയമിക്കണം ഇപ്പോൾ വ്യക്തമായും നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അതേസമയം നമ്മളുടെ പരിമിതികളൊന്നും മൂല്യങ്ങൾ പൂർണ്ണസംഖ്യകളായിരിക്കണം എന്ന് പ്രകടിപ്പിക്കുന്നില്ല ഇതിനെക്കുറിച്ച് എന്തുചെയ്യാൻ കഴിയും നമുക്ക് ഇത് 10 6 എടുക്കാം കൂടാതെ നമുക്ക് 10 അല്ലെങ്കിൽ 11 എന്ന പിശകുകൾ കണ്ടെത്താനും ചിലവ് പോലും പൂർണ്ണസംഖ്യയാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് പുനർവായന നടത്താനും കഴിയും അതിനാൽ ഇതിനെ ഇൻറിജർ റൌണ്ടിംഗ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ മൂല്യങ്ങൾ വലുതാണെങ്കിൽ 10 11 രണ്ട് അക്ക മൂല്യം പറയുന്നു റൌണ്ടിംഗ് താരതമ്യേന ചെറിയ സ്ഥാനചലനമാണ് ഒപ്റ്റിമലിന്റെ ഗുണനിലവാരം മാറില്ല പക്ഷേ അക്കങ്ങൾ ചെറുതാണെങ്കിൽ 1 52 അല്ലെങ്കിൽ 1 ന്റെ 0 51 മണിക്കൂർ 0 മുതൽ അത് എടുക്കാൻ പോകുന്നുവെന്ന് പറയുന്നതിനിടയിൽ ഞാൻ റൌണ്ടിംഗ് നടത്തുകയാണെങ്കിൽ റൌണ്ടിംഗിന്റെ പ്രഭാവം തികച്ചും ഒരു ജോലിയാണ് ലീനിയർ പ്രോഗ്രാമിംഗിലെ പൊതുവായ പ്രശ്നമാണിത് ലീനിയർ പ്രോഗ്രാമിംഗിന് നിങ്ങൾക്ക് ഇൻറിജർ സൊല്യൂഷനുകൾ ഉണ്ടെന്ന് ഉറപ്പുനൽകാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു ഇൻറിജർ സൊല്യൂഷൻ ആവശ്യമുള്ളപ്പോൾ ഒരു ഇൻറിജർ പരിഹാരം നേടാൻ റൌണ്ടിംഗ് ഉപയോഗിക്കാം പക്ഷേ റൌണ്ടിംഗ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിമo നൽകുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണസംഖ്യ പരിഹാരം വേണമെന്ന് നിർബന്ധിക്കരുത് നിങ്ങൾക്ക് ഇതേ പ്രശ്നം സജ്ജമാക്കി പരിഹരിക്കാനാകില്ല പക്ഷേ പരിഹാരങ്ങൾ പൂർണ്ണസംഖ്യകളായി ആവശ്യപ്പെടുന്നു നിർഭാഗ്യവശാൽ ഈ നിബന്ധനകൾ തികച്ചും കഠിനമായ അന്വേഷണമാണ് പൊതുവായ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രശ്നം സജ്ജമാക്കുമ്പോൾ അവ ഫലപ്രദമായി പരിഹരിക്കാനാകുമെന്ന് നമുക്ക് അവകാശവാദമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ സിംപ്ലക്സ് ഒരു കാര്യക്ഷമമായ പരിഹാരമല്ല മറിച്ച് ഫലപ്രദമായ പരിഹാരമാണ് പക്ഷേ ലീനിയർ പ്രോഗ്രാമിംഗിനായി ഇന്റീരിയർ പോയിന്റ് രീതികളും മറ്റ് പോളിനോമിയൽ ടൈം അൽഗോരിതങ്ങളും ഉണ്ട് പക്ഷേ നിങ്ങൾ കളിയുടെ നിയമങ്ങൾ മാറ്റി ഏകപക്ഷീയമായ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിമിതികൾ എന്നാൽ എനിക്ക് ഒരു പൂർണ്ണസംഖ്യ ലഭിക്കുന്ന മൂല്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് ഉണ്ട് അതിനെ ഇന്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കപ്പെടുന്നു നിർഭാഗ്യവശാൽ ഇന്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് കാര്യക്ഷമമായി പരിഹരിക്കാനാകില്ല അല്ലെങ്കിൽ കാര്യക്ഷമമായി ഹരിക്കാനാവില്ല അതിനാൽ ഇൻറിജർ ലീനിയർ പ്രോഗ്രാമിംഗിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് അത് ഒരു അനിയന്ത്രിതമായ ലീനിയർ പ്രോഗ്രാമായി മാറ്റാൻ ശ്രമിക്കുക കൂടാതെ ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ ഉചിതമായ രൌണ്ടിംഗ് നടത്തി വ്യാഖ്യാനിക്കുക എന്നതാണ്